ഹായ് ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കാൺപൂർ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള രവിചന്ദ്രനാണ് അതിനാൽ ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എൻ എൽ മൂക്ക് പദ്ധതിയുടെ ഭാഗമാണ് ആഴ്ച മൊഡ്യൂൾ രണ്ട് തുടർന്ന് ഇത് മുൻ പ്രഭാഷണത്തിലെ പ്രഭാഷണ നമ്പർ പതിനാല് എ ഞാൻ നിങ്ങളോട് ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് നല്ലതും ചീത്തയും തിരിച്ചറിയുന്നതിനുള്ള ചർച്ച ആരംഭിക്കുകയും ചെയ്തു ഞാൻ നിങ്ങൾക്ക് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങിയെന്ന് തിരിച്ചറിയുന്നതിനുള്ള ശീലങ്ങൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ഒരു ദ്രുത ഹൈലൈറ്റ് ഞാൻ നിങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ പല കാര്യങ്ങളും നിസ്സാരമായി കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് തെറ്റായ ധാരണയുള്ളതുപോലെ നിങ്ങൾക്ക് ധാരാളം അനുമാനങ്ങളുണ്ട് നിങ്ങൾക്ക് ഏത് ശീലവും എളുപ്പത്തിൽ രൂപപ്പെടുത്താൻ കഴിയും അതിലുപരിയായി നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് മോശം ശീലങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾ അനുവദിച്ച തെറ്റായ അനുമാനം ഉപയോഗിച്ച് അത് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും വാസ്തവത്തിൽ മോശം ശീലങ്ങൾ എങ്ങനെ അടിഞ്ഞുകൂടുന്നു എന്നതിന്റെ ഉദാഹരണം ഞാൻ നൽകി അത് നിങ്ങൾ ധരിച്ച തുണി പോലെയാണ് നിങ്ങൾ എറിയുന്ന പേപ്പർ പോലെ വലുതാകുന്നതുവരെ നിങ്ങളുടെ കട്ടിലിലോ മേശയിലോ എറിയുന്നത് തുടരുക അല്ലെങ്കിൽ ഫാനിൽ അടിഞ്ഞുകൂടുന്ന പൊടി അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ അത് പതുക്കെ ശ്രദ്ധിക്കുന്നില്ല നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യം തുടർന്ന് നിങ്ങൾ പരിഭ്രാന്തരായി അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കരുതുന്നതുപോലെ എല്ലാ ശീലങ്ങളും എളുപ്പത്തിൽ കണ്ടെത്താനാവില്ല പ്രത്യേകിച്ചും ഒരിക്കൽ നല്ലത് രൂപപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മുടെ ശീലങ്ങളിൽ ഭൂരിഭാഗവും അബോധാവസ്ഥയിലുള്ള പെരുമാറ്റ പ്രതികരണങ്ങളുമാണ് ബാഹ്യ ഉത്തേജകങ്ങളിലേക്ക് അവ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ വസ്തുക്കളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു പക്ഷേ ആന്തരികമായി നമ്മുടെ തലച്ചോറിൽ അത് പ്രവർത്തനക്ഷമമാവുകയും തുടർന്ന് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു ഈ വശം കൂടുതൽ വിശദമായി വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ എന്നാൽ പിന്നീട് സംസാരിച്ചതിന് ശേഷം നല്ലതും ചീത്തയുമായ ശീലങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങി അതിനാൽ അവസാനം ഞാൻ നിങ്ങളോട് ഒരു പിതാവ് ചുമരിൽ നഖം അടിക്കുന്ന കഥയെക്കുറിച്ച് പറഞ്ഞു പിന്നെ ആ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാഠം മോശം ശീലങ്ങളാണെങ്കിലും നിങ്ങൾ അത് മാറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ കഥാപാത്രത്തിൽ മായാത്ത ഒരു അടയാളം അവശേഷിപ്പിക്കും അത് സുരക്ഷിതവും മികച്ചതുമാണ് എല്ലായ്പ്പോഴും നല്ല ശീലങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രത്യേകിച്ചും നിങ്ങളുടെ ശീലങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വ്യക്തിത്വം മോശം ശീലങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും നല്ല ശീലങ്ങൾ വികസിപ്പിക്കാനും ശ്രമിക്കുന്നു കഴിയുന്നത്ര കാരണം ഞാൻ പറഞ്ഞതുപോലെ പിന്നീടുള്ള ഘട്ടത്തിൽ പോലും നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുമ്പോൾ ചില മോശം ശീലങ്ങൾ ചിലപ്പോൾ വളരെ വൈകിയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അത് മാറ്റിയാലും നിങ്ങളുടെ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് ആ ശീലങ്ങളുണ്ടായിരുന്നുവെന്ന് മറക്കാൻ പോകുന്നില്ല അതിനാൽ അത് നിലനിർത്തുക പിതാവ് മകനോട് പറഞ്ഞതുപോലെ മനസ്സിൽ വയ്ക്കുക അതിനാൽ അത് നല്ലതാണ് എന്ന ധാർമ്മികത ഓർക്കുക അത് ഒഴിവാക്കാൻ നിങ്ങൾ ശക്തമായ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുകയും പിന്നീടുള്ള ഘട്ടത്തിൽ പോലും ആരും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും ചെയ്യും ഈ ആഴ്ച കഥകൾ നിറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിലേക്ക് മടങ്ങിവരുന്നു ഞാൻ നിങ്ങളോട് മറ്റൊരു കഥ പറയാൻ പോകുകയാണെന്ന് തുടക്കത്തിൽ എ പറഞ്ഞു ഒരു രോഗിയെക്കുറിച്ചുള്ള ഈ കഥ പറയുക തുടർന്ന് കഥ ആരംഭിക്കുമ്പോൾ അത് ഐ ആശുപത്രിയിലെ ഒരു ആശുപത്രിയുടെ ശരി ഒരു രോഗി കിടക്കുന്നു തുടർന്ന് രോഗിയുടെ അരികിൽ ഭാര്യ അവിടെയുണ്ട് അവൾ വളരെ ആശങ്കാകുലയാണ് തുടർന്ന് അവളുടെ കൈയിൽ വളരെ ചെറിയ ഒരു കുഞ്ഞ് ഉണ്ട് തുടർന്ന് രണ്ട് കുട്ടികൾ അവളുടെ അരികിൽ നിൽക്കുന്നു അപ്പോൾ അവർ വളരെ ആശങ്കാകുലരാണ് കാരണം അത് ഇങ്ങനെ കാണപ്പെടുന്നു ഈ വ്യക്തിക്ക് ഒരുതരം മാരകമായ രോഗം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത് മുഖത്ത് നിന്നാണ് അവൻ ക്യാൻസർ ബാധിതനാണെന്ന് തോന്നുന്നു തുടർന്ന് അവൻ ഐ യിൽ ആണെന്ന് തോന്നുന്നു അവൻ തന്റെ അവസാന വീതി നൽകാൻ കാത്തിരിക്കുന്നു തുടർന്ന് അവൻ എപ്പോൾ വേണമെങ്കിലും മരിച്ചേക്കാം അതിനാൽ ഇതാണ് പിന്നെ അവർ ഒരു ഡോക്ടർ ഒരു പ്രത്യേക ഡോക്ടർ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് അവൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഈ ഡോക്ടർ വന്നാൽ പിന്നെ ചില പ്രതീക്ഷകളുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് അവനെ ഒരു ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ ഡോക്ടർ അമേരിക്കയിലേക്ക് പോയി തുടർന്ന് അവൻ ലോക പര്യടനം നടത്തുന്നു അവൻ വളരെ നല്ല മനുഷ്യനാണ് തിരക്കുള്ള വ്യക്തിയും അവർ ഡോക്ടറെ കാത്തിരിക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ ആ ദിവസം ഡോക്ടർ അവൻ വരുമെന്ന് പറഞ്ഞു തുടർന്ന് അവർ നിയമപരമായി പ്രതീക്ഷയോടെ ഡോക്ടറെ കാത്തിരിക്കുകയാണ് ഡോക്ടർ വന്ന് ക്യാൻസർ ബാധിച്ച ഒരു രോഗിയെ രക്ഷിക്കുമെന്ന് മരിക്കാൻ ഏതൊരു ചലനവും ഉണ്ടാക്കി അവൻ കുടുംബത്തോടൊപ്പമാണ് മൂന്ന് കുട്ടികളുടെ അടുത്താണ് തുടർന്ന് ഒരു ഒരു ഭാര്യയും മൂന്ന് കുട്ടികളുടെ അമ്മയും ഈ സാഹചര്യത്തെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലരാണ് ശരി പിന്നെ ഡോക്ടറെ കാണാൻ ഡോക്ടർ വളരെ സന്തോഷത്തോടെ പ്രവേശിക്കുന്നു തുടർന്ന് ഡോക്ടർ ഈ വ്യക്തി കാൻസർ ബാധിതനാണെന്നും അവർ ആണെന്നും കേസിനെക്കുറിച്ച് വിശദീകരിച്ചു അവനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും പോകാനോ വേണ്ടി അവൻ ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയ നടത്താൻ കാത്തിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ ആ വ്യക്തിയുടെ പേര് വായിക്കുകയും വളരെ ആശയക്കുഴപ്പത്തിലാകുകയും തുടർന്ന് ആഴത്തിൽ നോക്കുകയും ചെയ്യുന്നു രോഗിയും രോഗിയും നോക്കുന്ന മറ്റൊരാളുടെ കണ്ണിലേക്ക് ഡോക്ടറും പതുക്കെ അവർ പരസ്പരം തിരിച്ചറിയാൻ തുടങ്ങുന്നു തുടർന്ന് നമുക്ക് ഒരു ഫ്ലാഷ് കാണാം പിന്നെ ഞങ്ങൾ രോഗിയുടെ കുട്ടിക്കാലത്തേക്കും കുട്ടിക്കാലത്തേക്കും പോകുന്നു അതിനാൽ അവൻ അടുത്തിരിക്കുന്നു ഒരു ദിവസം അവർ പോകുമ്പോൾ അവർ സുഹൃത്തിനൊപ്പവും പിന്നെ ഈ സുഹൃത്തിനൊപ്പവും വളരുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ സുഹൃത്ത് പറയുന്നു ഹേയ് സാധാരണ യാർ നിങ്ങൾ ഇപ്പോഴും ഒരു കുട്ടികളെപ്പോലെയാണ് നമുക്ക് മുതിർന്നവരെപ്പോലെ പെരുമാറാം ശരി അപ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു മുതിർന്ന ആളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് നോക്കൂ ഞാൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരു മനുഷ്യനെപ്പോലെ തോന്നുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത് ആരംഭിക്കുന്നില്ല ഈ ആൾ വളരെ ഭയപ്പെട്ടു അപ്പോൾ അവൻ ഇല്ല എന്ന് ചിന്തിച്ചു എനിക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ തുടങ്ങണം അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ യാഥാസ്ഥിതികനാണ് പിന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള കുടുംബമല്ല അത് ശരിക്കും മോശമാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം ഈ സ്ക്രാപ്പുകളെല്ലാം നിങ്ങൾ വെറുതെ കളിയാക്കുക നിങ്ങൾ ഒരു സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് ഞാൻ നിങ്ങളോട് മോശം കാര്യങ്ങൾ പറയുന്നില്ല ഇപ്പോൾ ഈ വ്യക്തി പുകവലിക്കാൻ തുടങ്ങി അത് ഫ്ലാഷ്ബാക്കിലാണ് അദ്ദേഹം ഐ യിലുള്ള നിലവിലെ സാഹചര്യത്തിലേക്ക് നമ്മൾ മടങ്ങിവരുന്നു നിങ്ങൾക്ക് ചുറ്റും ഭാര്യയും കുട്ടികളും ഉണ്ട് കാൻസർ ബാധിച്ച അതേ രോഗിയാണ് പുകവലി ആരംഭിക്കാൻ വളരെയധികം ഭയപ്പെടുന്ന ആളാണ് എന്നാൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർ നിങ്ങളിൽ ആരെങ്കിലും ഈ സമയമായപ്പോഴേക്കും ഇത് ഊഹിച്ചിരിക്കാം ഡോക്ടർ യഥാർത്ഥത്തിൽ ഇത് ചെയ്ത അവന്റെ സുഹൃത്താണ് താൻ തൻറെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഈ വ്യക്തി പുകവലി ശീലം വളർത്തുന്നു തുടർന്ന് അവൻ ഒരു മനുഷ്യനായിരിക്കണം അവൻ ഒരു മുതിർന്നവനെപ്പോലെ പെരുമാറണം അപ്പോൾ ഈ ആൾ പൂർണ്ണമായും ആരോഗ്യമുള്ള ഈ ഡോക്ടറെ കാണാൻ ഒരു തിരിച്ചുവരവ് നടത്തി അത്രയും ജനപ്രിയവും അത്രയും സമ്പന്നവും ഏതൊരാളും വില കൊടുത്തതും മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിച്ചതിനും തുടർന്ന് അദ്ദേഹത്തിൻറെ ശസ്ത്രക്രിയകൾ വളരെ ജനപ്രിയമായതിനും എന്താണ് സംഭവിച്ചത് അപ്പോൾ അവൻ ഹേയ് എന്ന് പറയുന്നു പിന്നെ അവൻ പറയുന്നു ഓ അത് നീയാണോ പിന്നെ അവർ വളരെ ആശ്ചര്യപ്പെട്ടു അതേ സമയം ഒരുതരം വിറയ്ക്കുന്ന ശബ്ദത്തിൽ രോഗി കഷ്ടപ്പെടുന്നു അപ്പോൾ അവൻ അവനോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിച്ചു നിങ്ങൾ ഇപ്പോഴും പുകവലിക്കുന്നുണ്ടോ അത് ഡോക്ടർ വെറുതെ ചിരിച്ചു തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഓ സാധാരണ അതിനാൽ അത് വെറും ഒരു കുട്ടിക്കാലം രസകരമാണ് അതിനാൽ ഞാൻ കോളേജിൽ പോയ സമയവും അതിനുശേഷവും ഞാൻ അത് ഉപേക്ഷിച്ചു ഞാൻ എന്റെ മെഡിക്കൽ പ്രൊഫഷനെക്കുറിച്ച് ഗൌരവമുള്ളയാളാണ് ഞാൻ ഇപ്പോൾ നൽകുന്ന ഒരു ഡോക്ടർക്ക് ഇത് നല്ലതല്ലെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് ഒരു മെഡിക്കൽ സീറ്റ് ലഭിച്ച ദിവസത്തിന് വളരെ മുമ്പുതന്നെ ഞാൻ അത് ഉപേക്ഷിച്ചു അത് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇതുപോലെ തുടരുമായിരുന്നു നിങ്ങൾ ഒരു ചങ്ങല പുകവലിക്കാരനായിത്തീർന്നതായി തോന്നുന്നു തുടർന്ന് നിങ്ങൾ ഈ ശീലം നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ വന്നതാണോ എന്ന് നോക്കൂ അതിനാൽ ഞാൻ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം നല്ല ശീലങ്ങളും ചീത്തയുമാണ് സമപ്രായക്കാരുടെ സ്വാധീനത്തിലൂടെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ പരിസ്ഥിതിയിലൂടെയോ ആണ് ശീലങ്ങൾ രൂപപ്പെടുന്നത് നമ്മളോ ചുറ്റുപാടുകളോ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യാനും തുടർന്ന് രൂപപ്പെടാനും നമുക്ക് ഉത്തേജനം നൽകുന്നു ഒരു ശീലം അത് നല്ല ശീലമായിരിക്കാം അത് മോശം ശീലമായിരിക്കാം പക്ഷേ കഥയിൽ പറഞ്ഞതുപോലെ ഇത് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഒരു നല്ല ശീലം നിലനിർത്തുന്നതിനോ ഒരു മോശം ശീലം മാറ്റുന്നതിനോ ഉള്ള വ്യക്തിഗത ധാരണയും വിശ്വാസവും ഇപ്പോൾ ഡോക്ടറും രോഗിയും പുകവലിക്കാൻ തുടങ്ങിയ അതേ അന്തരീക്ഷം നോക്കൂ യഥാർത്ഥത്തിൽ പിന്നീട് പ്രശസ്തനായ ഡോക്ടറായ വ്യക്തിയാണ് യഥാർത്ഥ കുറ്റവാളി ഈ രോഗിയെ മോശം ശീലം ശരിയായ രീതിയിൽ വികസിപ്പിച്ചെടുത്തതിന് ഉത്തരവാദിയായ ഒരാൾ നിങ്ങൾ അവരെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ധാരണകൾ എന്താണെന്നും ഇപ്പോൾ എവിടെയാണെന്ന് വിശ്വസിക്കുന്നുവെന്നും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു ഡോക്ടറാകുമ്പോഴോ അതിന് മുമ്പോ ഒരിക്കൽ പോലും ഡോക്ടറാകുമെന്ന് അവൻ മനസ്സിലാക്കുന്നു അദ്ദേഹം മെഡിക്കൽ കോളേജിൽ തന്നെ ചേരാൻ തുടങ്ങി ഇത് വളരെ അനാരോഗ്യകരമായ ഒരു സമ്പ്രദായമാണെന്ന് അദ്ദേഹം കരുതി പിന്നെ ആ രീതിയിൽ തുടരുന്നത് ഒരു ഡോക്ടറുടെ കാര്യമല്ലാതായി എന്നിട്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു രോഗിയായി മാറിയ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ ശരിയായിരുന്നു ഞാൻ എന്റെ സുഹൃത്തിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് എന്നിട്ട് അവൻ കുടുങ്ങിപ്പോയി അവൻ കുടുങ്ങിപ്പോയി അതിൽ പിന്നെ അയാൾക്ക് പുറത്തുകടക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമോ മൂല്യവ്യവസ്ഥയോ ഇല്ല അത് ശരിക്കും അപകടകരമാണെന്ന് കഥയിൽ നിന്ന് ഒരാൾ പഠിക്കേണ്ട പാഠം ഇതാണ് മോശം ശീലങ്ങളുടെ കാര്യത്തിൽ അതിൽ നിന്ന് പുറത്തുവരാൻ വളരെയധികം ഇച്ഛാശക്തി ആവശ്യമാണ് നിങ്ങളുടെ സ്വന്തം വിശ്വാസത്തിൽ നിന്നും മൂല്യവ്യവസ്ഥയിൽ നിന്നും ധാരാളം മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ മോശം ശീലം മാറ്റുന്നതിൽ അനുകൂലമായ മാറ്റം എന്തെങ്കിലും നല്ല ശീലമാണോ ചീത്ത ശീലമാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള അടുത്ത മാർഗ്ഗനിർദ്ദേശ തത്വം ഈ കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മോശം ശീലങ്ങൾ ഉടനടി സംതൃപ്തി നൽകുന്നു എന്നാൽ ഫലം മോശം ദീർഘകാല ഫലങ്ങളിൽ ആണെങ്കിൽ അത് മോശമാണെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും നിങ്ങൾ ആ ശീലം ആസ്വദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നു മദ്യം കുടിക്കുന്നതിന്റെ ഉദാഹരണത്തിലേക്ക് പോകുക അതിനാൽ വൈകുന്നേരം നിങ്ങൾ കുടിക്കുന്ന ഒരു പാർട്ടി ഉണ്ട് തുടർന്ന് നിങ്ങൾ പാർട്ടി ആസ്വദിക്കുന്നു അതിനാൽ നിങ്ങൾ നൃത്തം ചെയ്തു തുടർന്ന് നിങ്ങൾ നന്നായി പുറത്തുപോയി പക്ഷേ അടുത്ത ദിവസം രാവിലെ ഹാങ്ഓവർ അല്ലെങ്കിൽ നിങ്ങൾ ഛർദ്ദിക്കാൻ തുടങ്ങുകയും നിങ്ങൾക്ക് അസുഖം അനുഭവപ്പെടുകയും ചെയ്ത ആ രാത്രി പോലും രാവിലെ വരെ അങ്ങനെ മുൻ ദിവസം ശരിയായിരുന്നു എന്നാൽ ഉടനടി ഫലം പോലും അത് ആരോഗ്യകരമായിരുന്നില്ലെങ്കിലും നിങ്ങൾ നല്ല ശീലങ്ങൾ നോക്കുകയാണെങ്കിൽ അവ തൽക്ഷണ സംതൃപ്തി നൽകുന്നില്ല എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പന്നമായ ലാഭവിഹിതമുള്ള ആനുകൂല്യങ്ങൾ ഏതൊരു നല്ല ശീലവും നിങ്ങൾക്ക് സമ്പന്നരായി ഗുണം ചെയ്യും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭവിഹിതം ഉദാഹരണത്തിന് കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാൽ ഞാൻ പറയേണ്ടതില്ല എനിക്ക് നിന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് സമ്പന്നമായ പ്രതിഫലം നൽകുമെന്ന് നിങ്ങൾ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധാരണയായി പരിഗണിക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകുക നല്ലതും ചീത്തയുമായ ശീലങ്ങളായി കണക്കാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് വൃത്തികെട്ട ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും എടുക്കുമ്പോൾ നിങ്ങൾക്ക് മോശം ശീലം സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ അത് ഇട്ടത് അമിതമായ തീവ്രതയിൽ അത് വീണ്ടും വൃത്തികെട്ടതായി മാറും മദ്യം കഴിക്കുന്ന ഉദാഹരണത്തിലേക്ക് മടങ്ങുന്നു പാർട്ടിയിൽ ആരെങ്കിലും പരിമിതമായ അളവിൽ മദ്യപിച്ചതിനാൽ അത് നല്ലതാണ് പക്ഷേ അതേ പാർട്ടിയിൽ ആ വ്യക്തി അമിതമായ അളവിൽ ലിഗർ കഴിച്ചു പിന്നെ അയാൾക്ക് കഴിഞ്ഞില്ല കാർ ഓടിക്കാൻ അയാൾ ആരെയെങ്കിലും ഇടിച്ചു അത് വൃത്തികെട്ടതായി മാറുന്നു അല്ലെങ്കിൽ അയാൾക്ക് ശരിയായി നടക്കാൻ കഴിയുന്നില്ല റോഡിൽ ചെളിയിൽ വീണു തുടർന്ന് ആളുകൾ അവനെ കാണുകയും ഇപ്പോൾ അതേ മോശമായി അവനെ കളിയാക്കുകയും ചെയ്യുന്നു ശീലം വൃത്തികെട്ടതായി മാറിയേക്കാം അതിനാൽ അത് പരിശോധിക്കുകയും തുടർന്ന് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ അങ്ങേയറ്റത്തെ സാഹചര്യം അത് വൃത്തികെട്ടതായി മാറിയേക്കാം ഈ വശത്ത് ലളിതമായ ഒരു മോശം ശീലവും ഈ വശത്ത് രാത്രി വൈകി ഉറങ്ങുന്ന നല്ല ശീലവും നോക്കുക നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു മോശം ശീലമാണ് അതിനാൽ പ്രോ കാസ്റ്റിഗേഷൻ വൈകിപ്പിക്കുന്ന നല്ല ശീലം മോശമാണ് സമയം ഇപ്പോൾ നല്ലതാണ് ആരോഗ്യത്തിലും ശുചിത്വത്തിലും താൽപ്പര്യമില്ലാത്തതിനാൽ ഇപ്പോൾ ശരി എന്ന് ഞാൻ കരുതുന്നു ഞാൻ വളരെ ശക്തനായതിനാൽ എനിക്ക് ഒന്നും സംഭവിക്കില്ല അതിനാൽ നിങ്ങൾ ഇത് പതുക്കെ കണ്ടെത്തി നിങ്ങൾ വികസിപ്പിക്കാത്ത അമിതഭാരത്തിന്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് എടുക്കുന്ന ഒരു തരം ശീലം ഒരു ദിവസം നിങ്ങൾക്ക് മധുരത്തോടുള്ള ഇഷ്ടമോ വ്യായാമം ചെയ്യാനുള്ള താൽപ്പര്യമില്ലായ്മയോ ആകാം ചെറിയ നടത്തം നടത്തുകയോ അല്ലെങ്കിൽ ഞാൻ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല എന്ന നിങ്ങളുടെ മനോഭാവം പിന്നെ തടിച്ചതും തടിച്ചതുമായിരിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു അതിനാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ആരോഗ്യത്തിന്റെയും ശുചിത്വത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾക്ക് പൊതുവായ താൽപ്പര്യമില്ലായ്മയുണ്ടെങ്കിലും നല്ല ശീലങ്ങളാണോ ഫിറ്റ്നസ് നിലനിർത്തുകയും ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ പതുക്കെ പതുക്കെ തുടങ്ങുന്ന മോശമായ ശീലമാണ് പിന്നെ അത് ക്രമേണ മറ്റുള്ളവരെ വിമർശിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വികസിപ്പിക്കണമെങ്കിൽ ഈ വശം ഒരു വ്യക്തി മറ്റുള്ളവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയുകയും എല്ലായ്പ്പോഴും വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ശീലം സ്വയം സ്വയം വളരുക മോശം ശീലം ഈ വശത്ത് ഏതെങ്കിലും അമിതമായ ഏതെങ്കിലും ആസക്തി ശീലങ്ങൾ അത് മദ്യപാനമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗിന്റെ കാര്യത്തിൽ അമിതമായി സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നു ശരിക്കും പ്രധാനപ്പെട്ട ചില ജോലികൾ ചെയ്യാനുണ്ടെന്ന് മറന്നുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഇതിൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു അതിനാൽ അമിതമായ എന്തും നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ അടിമകളാക്കുന്നു അതിനാൽ അത് മോശമാണ് ഇപ്പോൾ ഈ വശം ഒരു വ്യക്തിയല്ല ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുന്ന നല്ല ശീലങ്ങൾ വ്യക്തി മിതമായി ആസ്വദിക്കുന്നു പ്രത്യേകിച്ചും വ്യക്തി ദോഷകരമായ ആവശ്യങ്ങൾ ഒഴിവാക്കുന്നു ഉദാഹരണത്തിന് മയക്കുമരുന്ന് എടുക്കുക അതിനാൽ ഒരു തത്വശാസ്ത്രം ജീവിതം എന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ നിങ്ങൾ എല്ലാം നന്നായി അനുഭവിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അത് ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് ഒരു മോശം പോലെയുള്ള ഒന്ന് പോലും ആസ്വദിക്കാൻ കഴിയും മദ്യപാനത്തിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് നിങ്ങൾ പോലും അത് രുചിച്ചു നോക്കുമ്പോൾ അൽപ്പം നല്ല രുചിയാണ് ഒരു മോശം ശീലത്തിന്റെ രുചി വളരെ ആസക്തിയുള്ള മരുന്ന് പോലെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജോലിസ്ഥലം വരെ പിന്നെ നിങ്ങൾ ഒരു ആസക്തിയിൽ നിന്ന് ആരംഭിക്കുക തുടർന്ന് മറ്റ് നിരവധി മോശം ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ അവസാനിപ്പിക്കുമോ പണം മോഷ്ടിക്കുന്നത് പോലെയുള്ള നുണകൾ പറയുക ചില കുറ്റവാളികളെക്കുറിച്ച് ചിന്തിക്കുക പോലെയുള്ളവ മോശം ശീലം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു കാര്യം മറ്റൊന്നിലേക്ക് നയിക്കുന്നു തുടർന്ന് അത് മാറുന്നു നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന വളരെ ശക്തമായ ശൃംഖല അത് വളരെ ശക്തിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ വശത്തെ ലളിതമായ കാര്യം ടിവി കാണുന്നതിനോ ഇന്റർനെറ്റ് സർഫിംഗ് ചെയ്യുന്നതിനോ ഉള്ള സമയം പാഴാക്കുക പോലെയാണ് അത് പതുക്കെ കൂടിക്കൂടി വരുന്നതിനാൽ വിദ്യാർത്ഥികൾ തുടക്കത്തിൽ രണ്ട് വിൻഡോകൾ ഒരു വിൻഡോയിൽ നിന്ന് ആരംഭിക്കുന്നത് ഞാൻ കണ്ടു യഥാർത്ഥ അക്കാദമിക് പ്രവർത്തനങ്ങൾ മറ്റേ വിൻഡോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് തുറന്നിരിക്കുന്നു ഇപ്പോൾ തുടക്കത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല പെട്ടെന്ന് ഒരു സന്ദേശം വരുന്നു അത് പോപ്പ് അപ്പ് ചെയ്യുന്നു അതിനാൽ അവൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു ആരാണ് അയയ്ക്കുന്നതെന്ന് അറിയാൻ അദ്ദേഹം പ്രതികരിക്കുന്നു തുടർന്ന് ഞാൻ ഈ പോസ്റ്റ് ഇട്ടുവെന്ന് ആ വ്യക്തി പറയുന്നു അവൻ പോസ്റ്റിൽ നിന്ന് പോസ്റ്റിലേക്ക് പോകുമ്പോൾ മറ്റ് ലിങ്കുകൾ ഉണ്ട് തുടർന്ന് അവൻ ബ്രൌസ് ചെയ്യുന്നുവെന്ന് കരുതുന്നു ഓ ഞാൻ എന്നെ വളരെയധികം മിസ് ചെയ്യുന്നു അതിനാൽ അവൻ എന്താണ് ചെയ്യുന്നത് പിന്നെ അവൻ മറ്റൊരാളെ അയയ്ക്കുന്നു എന്ന തോന്നൽ അയാൾക്ക് ലഭിക്കുന്നു മറ്റെല്ലാ അഞ്ചുപേരും വരുന്നു എന്തുകൊണ്ട് നാമെല്ലാവരും ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്നില്ലെന്ന് അവർ പറയുന്നു അവർ ചാറ്റിംഗ് തുടരുന്നു അവർ മനസ്സിലാക്കുമ്പോഴേക്കും അത് മൂന്ന് മണി മുതൽ നാല് മണി വരെ പോലെയാണ് ഒരു പുലർച്ചെ അവർ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് എട്ട് മണിയോടെ തുടങ്ങിയപ്പോൾ അതിനാൽ മൂടുപടം വെറുതെ പാഴാക്കുക മാത്രമാണ് സമയം കടന്നുപോകുന്നത് ഇപ്പോൾ ഈ വശത്ത് നല്ല ശീലം വളർത്തിയെടുക്കാൻ താൽപ്പര്യമുള്ള വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ സമയം ഉപയോഗിക്കുന്നു വിവേകപൂർവ്വം സമയത്തെ ഒരു അപൂർവ ചരക്കായി കാണുന്നു അത് ആസൂത്രണം ചെയ്തതും റേഷനിംഗിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതും ആണ് സമയം പാഴാക്കുന്നില്ല ഇത്തവണ ഈ വശത്ത് മോശം ആൾ മോശം ശീലം രൂപപ്പെടുത്തിയ വ്യക്തിയാണ് കൃത്യസമയത്തില്ലാത്ത ഭക്ഷണമായതിനാൽ പെട്ടെന്ന് മൂന്ന് മണിക്ക് അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വേണം അവർ പോയി നോക്കുന്നു അടുക്കളയിലോ ഫ്രിഡ്ജിലോ സൂക്ഷിക്കുന്നതെന്തും മിക്കപ്പോഴും ഓരോരുത്തരിലും നല്ല ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ഇപ്പോൾ ജങ്ക് ഫുഡിലാണ് ഓരോ ആരോഗ്യകരമായ ഭക്ഷണത്തിനും എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മോശം ശീലം നൽകാൻ കഴിയും ഒരു കാര്യം കൂടി സാധനങ്ങൾ മോഷ്ടിക്കുന്നു എന്നാൽ നമ്മൾ വികസിപ്പിക്കേണ്ട ഒരു നല്ല ശീലം ആ ശീലങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ വ്യക്തി സത്യസന്ധനും വിശ്വാസയോഗ്യനുമാണെന്ന് നിങ്ങൾക്ക് ഒരുതരം പ്രതിച്ഛായ സൃഷ്ടിക്കും കൂടുതൽ ഉദാഹരണങ്ങൾ പിന്നീട് നോക്കൂ പക്ഷേ നിങ്ങൾക്ക് ഒരു കഥ കൂടി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇടവേള നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാഠവും മാർഗ്ഗനിർദ്ദേശവും കൂടി പുറത്തുവരുന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ വായിച്ചു പിന്നെ എന്തുകൊണ്ട് പാടില്ല എന്നതിനെക്കുറിച്ച് അത് വളരെ ശാശ്വതമായ മതിപ്പ് സൃഷ്ടിച്ചു മോശം ശീലങ്ങൾ വികസിപ്പിക്കുക ഇപ്പോൾ ഇത് നോക്കൂ ഇത് യഥാർത്ഥത്തിൽ മകനെ വളരെയധികം സ്നേഹിച്ച ഒരു അമ്മയെക്കുറിച്ചാണ് ഈ അമ്മ ഈ മകനെ മറ്റേതൊരു അമ്മയേക്കാളും കുറച്ചുമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തൻ്റെ മകനെ ഇത്രയധികം സ്നേഹിച്ചത് അവളാണ് എന്നാൽ ഇത്തവണ കഥ എങ്ങനെയാണ് നമ്മെ അലട്ടുന്നത് ഒരു തടവുകാരനെ തൂക്കിലേറ്റാൻ പോകുന്ന അവസാന ദിവസം മാത്രമാണ് കഥ വികസിക്കുന്നത് അവന് ശിക്ഷ നൽകിയിട്ടുണ്ട് അതിനാൽ അവനെ തൂക്കിലേറ്റാൻ പോകുന്നു അതിനു തൊട്ടുമുമ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ വന്ന് ആ വ്യക്തിയോട് ഒരു സന്ദർശകൻ വന്നിട്ടുണ്ടെന്നും തുടർന്ന് അവൾ വന്നുവെന്നും പറയുന്നു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു അവൾ കരയുന്നു തുടർന്ന് അവൾ നിരാശയിലാണ് അതിനാൽ തടവുകാർ സർ അത് എന്റെ അമ്മയാണെന്ന് വാർഡൻ ജയിലറോട് പറയുന്നു അപ്പോൾ ജയിലർ കാര്യങ്ങൾ പറയുന്നു അമ്മയെ കാണാൻ മകന് താൽപ്പര്യമുണ്ടെന്ന് വ്യക്തമാണ് അതിനാൽ അവൻ പറയുന്നു അവളെ കൊണ്ടുവരുമെന്ന് അവൻ പറയുന്നു കാത്തിരിക്കൂ സർ നിർത്തുക എന്തുകൊണ്ടാണ് എനിക്ക് അവളെ കാണാൻ ആഗ്രഹിക്കാത്തത് അതിനാൽ ജയിലർ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ കുറച്ച് മണിക്കൂർ ചലനങ്ങളാണെന്ന് കണ്ട് വളരെ ആശ്ചര്യപ്പെട്ടു പിന്നെ നിങ്ങളുടെ അമ്മയാണ് ആർക്കാണ് ഒരു തവണ അമ്മയെ കാണാൻ താൽപ്പര്യമില്ലാത്തത് മരണവും അവൾ വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ അവൾ വളരെ നിരാശയാണ് എന്തുകൊണ്ട് നിങ്ങൾ അവൾക്ക് ഒരു അവസരം നൽകുന്നില്ല അവൾ കാരണമാണ് ഞാൻ ഇവിടെയുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് മകൻ പറയുന്നു ഇല്ല മുഴുവൻ കഥയും പറയുന്നു ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ പോയതായി ഞാൻ ഓർക്കുന്നു അവിടെയുള്ള ഒരു മാനേജർ എതിർത്തു എന്നിട്ട് നിങ്ങൾക്ക് പണം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല ദേഷ്യത്തിൽ നിങ്ങൾ ആ റിവോൾവർ എടുത്ത് അപ്പോഴേക്കും അവനെ വെടിവച്ചു കൊന്നു പോലീസ് വന്നു അവർ നിങ്ങളെ പിടികൂടി പിന്നെ അത് ഒരു കൊലപാതകമായതിനാൽ അതിനു തൊട്ടുമുമ്പും ശരീരത്തിന്റെ കണ്ണുകൾ അതിനാൽ ഇപ്പോൾ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ പ്രവർത്തനം നിങ്ങൾ അത് ചെയ്തു അതിന് നിങ്ങളുടെ അമ്മയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞു സർ നിങ്ങൾക്കറിയില്ല പക്ഷേ ഞാൻ താമസിച്ചിരുന്നപ്പോഴുള്ള എന്റെ കഥ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു സഹപാഠി സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ പിൻ ഞാൻ നോക്കി പിന്നെ ഞാൻ അത് എടുത്തു പിൻ കാരണം ഞാൻ പറഞ്ഞ ദിവസം ചില പേപ്പറുകൾ പിന്തുടരാൻ ആ പിൻ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മേ ക്ലാസ്സിൽ എന്റെ അരികിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ പിൻ ഞാൻ മോഷ്ടിച്ചതേയുള്ളൂ പിറ്റേന്ന് ഞാൻ മറ്റൊരാൾ സൂക്ഷിച്ചിരുന്ന ഒരു റബ്ബർ ഇറേസർ എടുത്തപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല ആൺകുട്ടി പിന്നെ ഞാൻ അത് അമ്മയെ കാണിച്ചു അവൾ സ്നേഹിച്ചിരുന്നതിനാൽ അവൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ഒന്നാം ക്ലാസിലേക്ക് പോയി ഞാൻ പെൻസിലുകൾ മോഷ്ടിക്കാൻ തുടങ്ങി രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഞാൻ തുടരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഷാർപ്പ്നറുകൾ എടുത്തു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാൻ പെൻസിൽ ബോക്സുകൾ പൂർണ്ണമായും മോഷ്ടിക്കാൻ തുടങ്ങി പിന്നെ പതുക്കെ ഞാൻ എനിക്കിഷ്ടമുള്ള എട്ടാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ അവരുടെ പുസ്തകങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ഒരാൾ ഉപയോഗിക്കുന്ന വാച്ച് കുറച്ച് നേരം സൂക്ഷിച്ച് കഴുകാൻ പോയപ്പോൾ മുഖം ഞാൻ മോഷ്ടിച്ചു ശരി ഞാൻ അത് കാണിച്ചു അതിനാൽ എന്റെ അമ്മ ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ അത് തുടർന്നു അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്നതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കാൻ തുടങ്ങി ഞാൻ രാത്രിയിൽ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കുകയും തുടർന്ന് കുറച്ച് പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു ആളുകൾ എന്നെ പിടികൂടിയില്ല പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഒരു വലിയ കാര്യത്തിനായി പോകുമെന്ന് ഞാൻ കരുതി ഞാൻ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ പോകുമ്പോൾ ആ സമയത്താണ് ഞാൻ പണം എടുത്തത് പക്ഷേ മാനേജർ എന്നെ കണ്ടപ്പോൾ അവൻ എന്നെ പിടികൂടി തുടർന്ന് ഞാനും മാനേജരും തമ്മിലുള്ള പോരാട്ടത്തിൽ ഞാൻ അവനെ കൊല്ലണം ഇപ്പോൾ ഞാൻ ആ ചെറിയ പിൻ മോഷ്ടിച്ചപ്പോൾ എൻറെ അമ്മ ആദ്യമായി എന്നോട് നിർത്തിയിരുന്നെങ്കിൽ ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചില പേപ്പറുകൾ പിന്തുടരുന്നത് മകൻ മോഷ്ടിക്കുന്നതല്ലെന്ന് നിങ്ങൾക്ക് പറയാം ക്ഷമിക്കണം ഈ പിൻ തിരികെ നൽകി ഞാൻ നിങ്ങൾക്ക് ധാരാളം പിൻകൾ തരും അല്ലെങ്കിൽ അടുത്ത ദിവസം എപ്പോൾ ഒരു തവണ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകുമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഇറേസർ എടുത്തു പക്ഷേ തിരിച്ചെത്തി ക്ഷമിക്കണം എന്ന് പറയുക അതിനാൽ ഞാൻ ആ ശീലം ആ സമയത്ത് അവസാനിപ്പിക്കുമായിരുന്നു ഞാൻ എത്തുമായിരുന്നില്ല ഈ തലത്തിൽ ഒരു കുറ്റവാളിയായി മാറുകയും ഇപ്പോൾ എന്നെ തൂക്കിലേറ്റുകയും ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയുമോ അവളെ കാണണോ അതോ ഞാൻ ഇതിൽ ന്യായീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനാൽ ജയിലർ സംസാരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം കഥ വിവരിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പാഠം എന്താണ് മോശം ശീലങ്ങൾ ഉണ്ടാക്കുന്നത് അപകടകരവും അങ്ങേയറ്റം ദോഷകരവുമാണ് അതിനാൽ കഥയിൽ ഉള്ള ഒരു മോശം ശീലം മുളയിൽ തന്നെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് അവൻ പിൻ എടുത്തപ്പോൾ അമ്മ അവനെ തടഞ്ഞു അവൻ ആ നിലയിലെത്തില്ല ആരെയെങ്കിലും വെടിവച്ച് കൊന്ന കുറ്റവാളി ആയിത്തീരുകയും അതിനാലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തത് മകനും അമ്മയും തമ്മിലുള്ള ദാരുണമായ അവസ്ഥയിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു മകനെ വളരെയധികം സ്നേഹിക്കുന്ന അമ്മ മകൻ ആഗ്രഹിക്കാത്ത ഏറ്റവും മോശം വ്യക്തിയായി മാറി നിങ്ങൾ ഏതെങ്കിലും മോശം ശീലം ചെറുക്കാൻ ശ്രമിച്ചാൽ ഇത് ഒഴിവാക്കാൻ മുഖത്തെ നോക്കുക ഇപ്പോൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം നമ്മൾ നമ്മുടെ ശീലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ചാൾസ് നോബിളിൽ നിന്നുള്ള ഈ ചിന്തയോടൊപ്പം നമ്മുടെ ശീലങ്ങൾ നമ്മെ ഉണ്ടാക്കുന്നു അതിനാൽ നല്ല ശീലങ്ങളോ മോശം ശീലങ്ങളോ ആകട്ടെ ആദ്യം നമ്മൾ അവയെ ശരിയാക്കുന്നു പക്ഷേ പതുക്കെ അത് മോശം ശീലമാണെങ്കിൽ അവർ നമ്മെ മോശം ആളുകളായി മാറ്റുന്നു അവർ നല്ല ശീലങ്ങളാണെങ്കിൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങളെ ശരിക്കും നല്ല ആളുകളായി മാറ്റുന്നു നിങ്ങളുടെ നല്ല മോശം ശീലങ്ങൾ തിരിച്ചറിയാൻ ഇപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണ് മോശം ശീലങ്ങൾ എന്ന് വീണ്ടും വിലയിരുത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ മുകുളത്തിൽ തന്നെ കടിക്കേണ്ടതുണ്ട് തുടർന്ന് നമുക്ക് കൂടുതൽ വികസിപ്പിക്കാൻ കഴിയുന്ന നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കഥയുമായി ഒരു നിമിഷം കൂടി നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും അതുവരെ അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് നല്ലതും ചീത്തയുമായ ശീലങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ